ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം അതിനാൽ നമ്മൾ നമ്മുടെ അതേ പ്രഭാഷണം തുടരുകയാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് മൊഡ്യൂളുകളായി വിഭജിച്ചു 2 അല്ലെങ്കിൽ 3 മൊഡ്യൂളുകളായി സാധാരണ ഓപാമ്പിൻറെ സവിശേഷതകൾ വൈദ്യുതി വിതരണത്തിന്റെ കാര്യത്തിൽ ടെർമിനലുകളുടെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ ഒപ് ആമ്പിൻറെ അനന്തമായ ഇൻപുട്ട് ഇംപെഡൻസ് അനന്തമായ നേട്ടം ഔട്ട്പുട്ട് ഇംപെഡൻസ് അനന്തമായ ബാൻഡ്വിഡ്ത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു സന്തുലിത വേഴ്സസ് അസന്തുലിത ഔട്ട്പുട്ട് സന്തുലിത വേഴ്സസ് അസന്തുലിതമായ പവർ സപ്ലൈ എന്നിവയും സന്തുലിത പവർ സപ്ലൈ എങ്ങനെ പ്രയോഗിക്കാം അസന്തുലിതമായ വിതരണം എങ്ങനെ പ്രയോഗിക്കും എന്നിവയും നമ്മൾ കണ്ടു ഔട്ട്പുട്ട് 7 4 എന്നിവയിൽ നിന്നാണോ അതോ ടെർമിനൽ 6 നും നിലത്തിനും ഇടയിൽ ആണോ എന്നും നമ്മൾ കണ്ടു 7 നും 4 നും ഇടയിലാണെങ്കിൽ അത് 6 നിലവും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാകില്ല അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നതെന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ പ്രത്യേക മൊഡ്യൂളിൽ നമ്മൾ കാണുന്നത് ഒപ് ആമ്പുകളിൽ ഫീഡ്ബാക്ക് നൽകുന്നത് ശരിയാണ് തുടർന്ന് കൂടുതൽ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് ഒരു ഒപ് ആമ്പ് ഉണ്ടെങ്കിൽ അത് ഒരു ഓപ്പൺ ലൂപ്പ് ഒപ് ആമ്പാണെങ്കിൽ ഇൻപുട്ട് ടെർമിനലുകളുടെ വ്യത്യാസം നേടുന്നതിന് ഒപ് ആമ്പിന്റെ ആന്തരിക സൂത്രവാക്യം VoutVnoninverting -Vinvertingനേട്ടം എന്നത് ഉപയോഗിക്കാം V V നേക്കാൾ വലുതാണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് ആകും അതിനാൽ എനിക്ക് V ഉണ്ടെങ്കിൽ നമുക്ക് V 2 വോൾട്ട് എന്ന് പറയാം V 1വോൾട്ട് പിന്നെ എന്റെ വ്യത്യാസം എന്താണ് വ്യത്യാസം ആണ് അതായത് 1 ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് 1 നേട്ടമായിരിക്കും ഇൻവർട്ടിംഗ് നോൺ ഇൻവർട്ടിംഗ് നേക്കാൾ വലുതാണെങ്കിൽ ഔട്ട്പുട്ട് നെഗറ്റീവിലേക്ക് പോകുന്നു അതിനാൽ വിപരീതമല്ലാത്ത ടെർമിനലിലെ വോൾട്ടേജ് 1 വോൾട്ട് ആണെന്ന് നമുക്ക് പരിഗണിക്കാം വിപരീത ടെർമിനലിലെ വോൾട്ടേജ് 2 വോൾട്ട് ആണ് ഈ സാഹചര്യത്തിൽ എനിക്ക് നേട്ടമുണ്ട് അത് 1 നേട്ടമായിരിക്കും അതിനാൽ ഔട്ട്പുട്ട് നെഗറ്റീവ് ആണ് അതിനാൽ എന്റെ Vin V നേക്കാൾ വലുതാകുമ്പോൾ ഔട്ട്പുട്ട് നെഗറ്റീവിലേക്ക് പോകുന്നു ഇപ്പോൾ 200000 അല്ലെങ്കിൽ 250000 നേട്ടം ഈ ഉപകരണത്തെ പ്രായോഗികമായി ഉപയോഗശൂന്യമാക്കുന്നു കാരണം ഇത് അനന്തമായ നേട്ടമാണെങ്കിൽ എനിക്ക് എങ്ങനെ ഈ ഉപകരണം ഉപയോഗിക്കാൻ കഴിയും എനിക്ക് ഈ ഉപകരണം ഉപയോഗിക്കാൻ കഴിയില്ല അതിനാലാണ് ഫീഡ്ബാക്ക് വളരെ പ്രധാനമായത് കാരണം എനിക്ക് വളരെ ഉയർന്ന നേട്ടമുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഇത് എനിക്ക് ഉപയോഗശൂന്യമായിത്തീരുന്നു അതിനാൽ ഇത് ഉപയോഗപ്രദമാക്കാൻ നമ്മൾ ഫീഡ്ബാക്ക് പ്രയോഗിക്കണം ഫീഡ്ബാക്കുകളിലൊന്ന് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് മറ്റൊരു ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കാണ് അതിനാൽ സ്വയം നിയന്ത്രിത നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് op ampനെ ഉപയോഗശൂന്യം അല്ലാതെ ആക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അതിനർത്ഥം ഞാൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ രജിസ്റ്ററുകൾ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത ഘടകങ്ങൾ അനുസരിച്ച് എനിക്ക് എന്റെ നേട്ടം മാറ്റാൻ കഴിയും തുടർന്ന് എനിക്ക് മികച്ച ശേഷി അല്ലെങ്കിൽ ശേഷിയിൽ പ്രവർത്തന ആംപ്ലിഫയർ ഉപയോഗിക്കാൻ കഴിയും സ്വയം നിയന്ത്രിത നെഗറ്റീവ് ഫീഡ്ബാക്കിൽ ഒഴികെ ബാക്കി എല്ലാ കോൺഫിഗറേഷനിലും അനന്തമായ നേട്ടം op ampനെ ഉപയോഗശൂന്യമാകും സാധാരണ ജീവിതസാഹചര്യങ്ങളിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മോശമാണെന്നും പോസിറ്റീവ് ഫീഡ്ബാക്ക് നല്ലതാണെന്നും തോന്നുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകിയാൽ നിങ്ങൾ അസന്തുഷ്ടനാകും പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകിയാൽ ഓ നിങ്ങളൊരു മികച്ച വിദ്യാർത്ഥി അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരു മികച്ച അധ്യാപകനാണ് ഞാൻ വളരെ സന്തുഷ്ടനാണ് ഇവ മനുഷ്യ സ്വഭാവമാണ് എന്നാൽ op ampൻറെ കാര്യത്തിൽ അങ്ങനെ അല്ല നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് സ്ഥിരം അല്ലാതെ ആകും നമുക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗിച്ചാൽ ഒപ് ആമ്പ് തികച്ചും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതായത് ഒപ് ആം നെഗറ്റീവ് ഫീഡ്ബാക്ക് നല്ലതാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിലെ ആപ്ലിക്കേഷനും നമ്മൾ കാണും പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്ക് വളരെ പ്രധാനമാണ് കാരണം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ധാരാളം സർക്യൂട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ വീണ്ടും സ്ലൈഡിലേക്ക് നോക്കാം ഇലക്ട്രോണിക്സിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നാൽ റൺ എവേ അല്ലെങ്കിൽ ഓസിലേഷൻ ആന്ദോളനം എന്നാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നാൽ സ്ഥിരത എന്നാണ് അതിനാൽ നിങ്ങൾക്ക് ഏത് ഫീഡ്ബാക്ക് ലഭിച്ചാലും എല്ലായ്പ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുകയും ശരിയായ രീതിയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യണം അതിനാൽ നിങ്ങൾ ഇലക്ട്രോണിക്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആന്ദോളനത്തിന് കാരണമാകും അല്ലെങ്കിൽ ആന്ദോളനങ്ങൾ സൃഷ്ടിക്കും കൂടാതെ നെഗറ്റീവ് ഫീഡ്ബാക്ക് സ്ഥിരതയിലേക്ക് നയിക്കും അതിനാൽ ഔട്ട്പുട്ടിനെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് ഹുക്ക് ചെയ്യുന്നത് സങ്കൽപ്പിക്കുക ഇത് ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് തിരികെ ബന്ധിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഔട്ട്പുട്ട് Vin നേക്കാൾ കുറവാണെങ്കിൽ എന്തു സംഭവിക്കുന്നു Vin 2 വോൾട്ട് ആണെന്നും ഔട്ട്പുട്ട് 1 വോൾട്ട് ആകുമെന്നും നമുക്ക് പറയാം അതിനാൽ 1 വോൾട്ട് ഇവിടെ ഫീഡ്ബാക്ക് ആണ് Vin ഇവിടെ പോസിറ്റീവ് ആണ് ഇത് ഇൻവെർട്ടിംഗ് ഇത് നോൺ ഇൻവെർട്ടിംഗ് ഇൻവെർട്ടിംഗിൽ വോൾട്ടേജ് നോൺവെർട്ടിംഗ് വോൾട്ടേജിനേക്കാൾ ചെറുതായിരിക്കും എനിക്ക് ഈ വോൾട്ടേജ് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വോൾട്ടേജ് 2 വോൾട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് ഇപ്പോൾ പോസിറ്റീവിലേക്ക് പോകും ഇപ്പോൾ ഇത് മാറുന്നു എന്റെ ഒപ് ആമ്പ് വോൾട്ടേജ് 4 വോൾട്ട് ആയതിനാൽ ഇൻവെർട്ടിംഗിൽ വോൾട്ടേജ് നോൺവെർട്ടിംഗ് വോൾട്ടേജിനേക്കാൾ വലുതായിരിക്കും ഇൻവെർട്ടിംഗിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും അപ്പോൾ ഔട്ട്പുട്ട് നെഗറ്റീവിലേക്ക് പോകുമോ ഔട്ട്പുട്ട് നെഗറ്റീവ് വലത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം അതിനാൽ ഔട്ട്പുട്ട് Vin നേക്കാൾ വലുതാണോ ചെറുതാണോ എന്നതനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ആകാം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും op amp നിലവിലെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഔട്ട്പുട്ടിനെ ശരിയാക്കാൻ എന്തും ചെയ്യും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ Vin വരെ ഓപ് ആമ്പ് ലോഡിലൂടെ ഒരു കറന്റ് ഓടിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ബഫർ ഉണ്ട് അതിനർത്ഥം വിപരീതമായി ഈ രീതിയിൽ Vin പ്രയോഗിക്കുമ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടിനെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും അതായത് ഔട്ട്പുട്ട് വിൻ എത്തുന്നതുവരെ ഇൻപുട്ടിനെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും ഇൻപുട്ട് വോൾട്ടേജ് വിൻ എന്ന മൂല്യത്തെ ഔട്ട്പുട്ട് പ്രതിരോധിക്കുന്നതുവരെ ഒപ് ആമ്പ് ലോഡ് ആയ ലോഡ് രജിസ്റ്ററിലൂടെ ലോഡ് കറന്റ് നയിക്കും അതിനർത്ഥം അത് ഒരു വോൾട്ടേജ് ഫോളോവർ ആണ് കാരണം ഞാൻ ഏത് വോൾട്ടേജ് പ്രയോഗിച്ചാലും ഇൻപുട്ടിൽ പ്രയോഗിക്കുന്ന അതേ വോൾട്ടേജ് നിലനിർത്താൻ ഔട്ട്പുട്ട് ശ്രമിക്കും അതിനാൽ ഇത് എന്റെ വോൾട്ടേജ് ഫോളോവർ ആയി മാറുന്നു ഇത് ഇൻപുട്ടിലെ വോൾട്ടേജിനെ പിന്തുടരുന്നു അല്ലെങ്കിൽ അതിനെ ബഫർ എന്നും വിളിക്കുന്നു ഇവിടെ നമുക്ക് ഒരു ബഫർ ഉണ്ട് നമുക്ക് വോൾട്ടേജ് V എങ്ങനെ വേണമെങ്കിലും പ്രയോഗിക്കാൻ കഴിയും അതിനർത്ഥം നമ്മൾ സുവർണ്ണ നിയമങ്ങളിൽ കണ്ടത് ഇൻപുട്ട് കറൻറ് വലിച്ചെടുക്കുക ഇല്ല എന്നതാണ് op amp ഇൻപുട്ട് കറൻറ് വലിയ്ക്കുന്നില്ല പക്ഷേ ഔട്ട്പുട്ട് അതുപോലെയല്ല അത് കറൻറ് വലിച്ചെടുക്കുന്നു അതിനാൽ ഔട്ട്പുട്ട് ടെർമിനൽ സോഴ്സ് സിങ്ക് ആയും നമുക്ക് ഉപയോഗിക്കാം ഈ പ്രത്യേക വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് കാണാം അതിനാൽ വിപരീത കോൺഫിഗറേഷനിൽ കണക്റ്റുചെയ്യുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കിനുപകരം ഈ കോൺഫിഗറേഷനിൽ ഇൻവെർട്ടിംഗ് അല്ലാത്ത ടെർമിനലിലേക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ കണക്റ്റുചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഇൻപുട്ട് Vin നേക്കാൾ ചെറുതായി ഉയരുമ്പോൾ ഔട്ട്പുട്ട് പോസിറ്റീവ് ആയി മാറുന്നു ഇത് ഇൻപുട്ടിനെ കൂടുതൽ പോസിറ്റീവ് ആക്കുന്നു അതിനർത്ഥം ഇൻവെർട്ടിംഗ് ഇൻപുട്ട് അല്പം വലുതായിരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ പോലും ഔട്ട്പുട്ട് പോസിറ്റീവ് ആയി പോകുന്നു ഇത് പോസിറ്റീവ് നൽകുന്നുവെങ്കിൽ ഇത് ഇൻപുട്ടിനെ കൂടുതൽ പോസിറ്റീവാക്കുന്നു കാരണം ഇത് ഇപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുമായി കണക്റ്റുചെയ്തിരിക്കുന്നു നമ്മൾ പറയുന്നത് ഇൻവെർട്ടിംഗ് അല്ലാത്ത ടെർമിനലിലെ എന്റെ വോൾട്ടേജ് ഇൻവെർട്ടിംഗ് ടെർമിനലിനേക്കാൾ അല്പം കൂടുതൽ ആകുമ്പോൾ എൻറെ ഔട്ട്പുട്ട് പോസിറ്റീവിലേക്ക് എത്തും ഈ പോസിറ്റീവ് ഇച്ഛാശക്തി വീണ്ടും വിപരീത അല്ലാത്ത ടെർമിനലിലേക്ക് കൊടുക്കുമ്പോൾ അത് കൂടുതൽ പോസിറ്റീവ് ആകും അതിനാൽ ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കും സിസ്റ്റം ഉടൻ തന്നെ സപ്ലൈ വോൾട്ടേജിൽ റെയിൽ ചെയ്യും പ്രാരംഭ ഓഫ്സെറ്റിനെ ആശ്രയിച്ച് ഇതിന് രണ്ട് ദിശയിലും റെയിൽ നടത്താം ഇപ്പോൾ പ്രാരംഭ ഘട്ടത്തെ ആശ്രയിച്ച് മറ്റൊരു ദിശയിലേക്ക് പോകുക ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ബ്ലോക്ക് ഡയഗ്രം അനുസരിച്ച് അതിന് ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ട് ആദ്യം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഘട്ടമാണ് അതിനുശേഷം ഇന്റർമീഡിയറ്റ് സ്റ്റേജുണ്ട് അതിനുശേഷം ലെവൽ സബ്സ്റ്റേറ്റുകളുണ്ട് അതിനുശേഷം ഔട്ട്പുട്ട് സ്റ്റേജുണ്ട് അതിനാൽ 4 അടിസ്ഥാന ഘട്ടങ്ങൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഘട്ടം ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ലെവൽ ഷിഫ്റ്റർ സ്റ്റേജ് പിന്നെ ഔട്ട്പുട്ട് സ്റ്റേജ് ഇപ്പോൾ കാണുമ്പോൾ ഓരോ ഘട്ടത്തിന്റെയും പങ്ക് എന്താണ് എന്നതാണ് തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ എങ്ങനെ ഉപയോഗിക്കാമെന്നും ബ്ലോക്ക് ഡയഗ്രാമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഓരോ ഘട്ടത്തിന്റെയും പങ്ക് എന്താണെന്നും നമ്മൾ കൂടുതൽ മനസിലാക്കും അതിനാൽ വീണ്ടും സ്ക്രീനിൽ തിരിച്ചെത്തുക നമുക്ക് 4 ഘട്ടങ്ങളുണ്ട് ആദ്യ ഘട്ട ഇൻപുട്ട് ഘട്ടം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സ്റ്റേജിന് തീർച്ചയായും 2 സിഗ്നലുകൾ തമ്മിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കാൻ കഴിയും കാരണം ഡിഫറൻഷ്യൽ സ്റ്റേജിൽ ഇൻപുട്ട് പ്രതിരോധം വളരെ ഉയർന്നതും ഇൻപുട്ട് ഉറവിടങ്ങളിൽ നിന്ന് 0 കറന്റ് വലിക്കുന്നതും ആണെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഘട്ടം ഞങ്ങൾക്ക് ഉയർന്ന ഇൻപുട്ട് ഇംപെഡൻസ് ഉള്ള ഒരു ഘട്ടമായിരിക്കും മാത്രമല്ല ഇത് ഇൻപുട്ട് ഉറവിടങ്ങളിൽ നിന്ന് കറന്റ് എടുക്കുകയുമില്ല ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഡയറക്ട് കപ്ലിംഗ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വളരെ ഉയർന്ന നേട്ട ലെവൽ ഷിഫ്റ്റർ ഘട്ടം നൽകുന്നു ഈ ലെവൽ ഷിഫ്റ്റർ ഘട്ടം വോൾട്ടേജിലെ DC ലെവലിനെ 0 ലേക്ക് മാറ്റും കാരണം ഏതൊരു DC ലെവലിലും ഔട്ട്പുട്ട് ആവശ്യമില്ലെന്ന് നമുക്കറിയാം അതിനാൽ DC ലെവൽ 0 ലെവൽ ഷിഫ്റ്ററിനടുത്തായിരിക്കും ഇത് DC ലെവലിനെ 0 ലേക്ക് മാറ്റും ഇത് 2 ടെർമിനലുകൾക്ക് ക്രമീകരിക്കാൻ കഴിയും നമുക്ക് ഇത് സ്വമേധയാ ക്രമീകരിക്കാൻ കഴിയും ഔട്ട്പുട്ട് ഒരു പവർ ആംപ്ലിഫയർ സ്റ്റേജ് ആണ് ഒരു പവർ ആംപ്ലിഫയർ ഘട്ടത്തിന് വളരെ ചെറിയ ഔട്ട്പുട്ട് പ്രതിരോധം ഉണ്ട് അതിനാൽ ലോഡ് മൂല്യം എന്തുതന്നെയായാലും ഔട്ട്പുട്ട് വോൾട്ടേജ് സമാനമാണ് അത് ഒരു വോൾട്ടേജ് ഫോളോവർ ആകാം അത് ഒരു ബഫറും ആകാം അതിനാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഒരു OP AMP ൻറെ ആന്തരിക സർക്യൂട്ട്ൻറെ സ്കീമാറ്റിക് കാണാം എന്നിരുന്നാലും ഇപ്പോൾ ഓപ് ആമ്പുകളിൽ ഭൂരിഭാഗവും ഉപയോഗിക്കുന്നത് മോസ്ഫെറ്റാണ് അല്ലാതെ ബിജെടികളല്ല BJT കൾ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിക്കൂ സർക്യൂട്ടിൽ ഭൂരിഭാഗവും BJT കൾ ഉപയോഗിക്കാറില്ല മിക്ക സ്ഥലത്തും നിങ്ങൾ MOSFET കളുടെ ഉപയോഗം കാണുന്നു അതിനാൽ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് IC യുടെ അവശ്യ ബിൽഡിംഗ് ബ്ലോക്ക് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറാണ് ഇത് 2 സിഗ്നലുകൾ തമ്മിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കും മികച്ച സ്ഥിരതയുണ്ട് ഉയർന്ന സ്ഥിരത ശബ്ദത്തിനും ഇടപെടൽ സിഗ്നലിനും പ്രതിരോധശേഷി അതിനാൽ മിക്ക അനലോഗ് DC മുതൽ ഉയർന്ന ഫ്രീക്വൻസി ആപ്ലിക്കേഷനുകൾ വരെയുള്ള സർക്യൂട്ടുകളിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മിക്ക ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നു ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻറെ സവിശേഷതകളിലേക്ക് വരാം ഇത് ഇതിനകം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫീഡ്ബാക്ക് പ്രയോഗിക്കാത്തപ്പോൾ ഓപമ്പിന് ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് നേട്ടമുണ്ട് അതുകൊണ്ട് ഓപ്പൺ ലൂപ്പ് നേട്ടം നിരവധി 1000 ങ്ങളാണ് പ്രായോഗിക ഓപാം ഇൻപുട്ട് ഇംപെഡൻസിൽ നമ്മൾ കണ്ടത് 1000 ങ്ങളാണ് ഇപ്പോൾ ഇൻപുട്ട് ഇംപെഡൻസ് അനന്തവും സാധാരണ ഒരു മെഗാ ഓമിനേക്കാൾ വലുതുമാണ് പക്ഷേ ഇൻപുട്ട് ഘട്ടത്തിനായി നമ്മൾ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ഇത് നിരവധി മെഗാ ഓമുകളായി വർദ്ധിപ്പിക്കാൻ കഴിയും ഇൻപുട്ട് ഇംപെഡൻസ് നൂറുകണക്കിന് മെഗാ ഓമുകളായി വർദ്ധിക്കും നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ സഹായത്തോടെ ഔട്ട്പുട്ട് ഇംപെഡൻസ് സാധാരണയായി നൂറുകണക്കിന് ഓഎമ്മുകൾക്ക് താഴെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗിക്കുന്നതിലൂടെ ഇത് 1 അല്ലെങ്കിൽ 2 ഓം ആയി ചുരുക്കാം ഒരു സാധാരണ OP AMPന് തുറന്ന ലൂപ്പ് കോൺഗ്രിഗേഷനിൽ ബാൻഡ്വിഡ്ത്ത് വളരെ ചെറുതാണ് ഇത് ആവശ്യമുള്ള മൂല്യത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും ശരിയായ നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗിച്ചാൽ നമുക്ക് ബാൻഡ്വിഡ്ത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിൻറ് ആയ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്നെകുറിച്ച് സംസാരിക്കാം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ് രണ്ട് ഇൻപുട്ട് ടെർമിനലുകളും ഗ്രൌണ്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കണം അത് ശരിയാണെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ എടുക്കുന്നു എന്റെ ഇൻവെർട്ടിംഗ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുകൾ രണ്ടും ഞാൻ ഗ്രൌണ്ട് ചെയ്യുന്നുവെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് Vo 0 ആയിരിക്കണം ഇത് ശരിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു കാരണം ഞാൻ ഇൻപുട്ട് ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഔട്ട്പുട്ട് പൂജ്യം ആയിരിക്കണം എന്നിരുന്നാലും പ്രായോഗിക ഒപ് ആമ്പിന്റെ കാര്യത്തിൽ പൂജ്യമല്ലാത്ത ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട് അതിനാൽ നിങ്ങൾ സമാനമായ പരീക്ഷണം നടത്തിയാൽ മില്ലിവോൾട്ടുകളുടെ മൂല്യത്തിൽ കുറച്ച് വോൾട്ടേജ് ഉണ്ടെന്ന് നിങ്ങൾ കാണും നിങ്ങൾ 2 3 6 7 4 ഇതുപോലെ എഴുതിയാൽ ഒപ് ആമ്പിന്റെ ഔട്ട്പുട്ട് ടെർമിനൽ കാണാം ഔട്ട്പുട്ടിൽ കുറച്ച് മില്ലി വോൾട്ടുകൾ കാണാം അത് 0 അല്ല അതിനാൽ നമ്മൾ പറയുന്നത് ശരിയാണ് രണ്ട് ഇൻപുട്ട് ടെർമിനലുകളും ഗ്രൌണ്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കണം എന്നിരുന്നാലും പ്രായോഗിക ഒപ് ആമ്പിന്റെ കാര്യത്തിൽ പൂജ്യമല്ലാത്ത ഔട്ട്പുട്ട് വോൾട്ടേജ് നിലവിലുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കുന്നതിനായി ഇൻപുട്ട് ടെർമിനലുകളിലൊന്നിലേക്ക് ഒരു DC വോൾട്ടേജ് പ്രയോഗിക്കുന്നതിന് ആവശ്യമുണ്ട് ഈ DC വോൾട്ടേജ്നെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നു ഇതിനെ Vios എന്ന് രേഖപ്പെടുത്തുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിനാൽ നമ്മൾ പറയുന്നത് വിപരീതവും അല്ലാത്തതുമായ ടെർമിനലിനെ ഗ്രൌണ്ട് ചെയ്യുമ്പോൾ ചില മില്ലിവോൾട്ടുകളുടെ ഔട്ട്പുട്ട് ഉള്ളതിനാൽ വിപരീതമോ അല്ലാത്തതോ ആയ ടെർമിനലിൽ ഒരു ചെറിയ വോൾട്ടേജ് നമ്മൾ പ്രയോഗിക്കേണ്ടതുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്നു ഞാൻ കരുതുന്നു അതിനാൽ നമ്മൾ പ്രയോഗിക്കുന്ന ഈ ചെറിയ DC വോൾട്ടേജാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത് ഇതിനെ Vios എന്ന് രേഖപ്പെടുത്തുന്നു അതിനാൽ അടുത്ത പോയിന്റ് എന്താണ് അടുത്ത പോയിൻറ് ആണ് ഇൻപുട്ട് ബയസ് കറന്റ് എന്താണ് ഇൻപുട്ട് ബയസ് കറന്റ് അനുയോജ്യമായ OP AMPൻറെ ഇൻപുട്ട് ടെർമിനലുകളിലേക്ക് കറന്റ് ഒഴുകുന്നില്ല നമ്മൾ സുവർണ്ണ നിയമത്തിൽ കണ്ടതാണ് ഒരു അനുയോജ്യമായ OP AMPൻറെ ഇൻപുട്ട് ടെർമിനലുകളിലേക്ക് ഒരു കറന്റും ഒഴുകുന്നില്ല എന്നാൽ ഒരു സാധാരണ OP AMPൽ വൈദ്യുതധാരകൾ ഉണ്ടാകും അത് വളരെ ചെറുതാണ് ഇത് 10 6 മുതൽ 10 14 വരെ ആമ്പിയർ ക്രമത്തിൽ വളരെ ചെറുതാണ് മിക്ക ഒപ് ആമ്പുകളും ഇൻപുട്ട് വോൾട്ടേജായി ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ 2 ട്രാൻസിസ്റ്ററുകൾ ശരിയായി പക്ഷപാതപരമായിരിക്കണം പക്ഷേ പ്രായോഗികമായി ആ ട്രാൻസിസ്റ്ററുകളുടെ കൃത്യമായ പൊരുത്തപ്പെടുത്തൽ നേടാൻ കഴിയില്ല അതിനാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ ഒന്നും ട്രാൻസിസ്റ്റർ രണ്ടും ഉണ്ടെന്ന് നിങ്ങൾ കാണും ഇപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ ശരിയായി ബയാസ് ചെയ്തിരിക്കണം അതിനാൽ ഉൽപ്പാദനം കാരണം T1 നും T2 നും ഇടയിൽ ചെറിയ മാറ്റമുണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ T1 T2 എന്നിവ ശരിയായി പക്ഷപാതപരമായി കാണാനാവില്ല അതിനാലാണ് ഒരു ചെറിയ ഇൻപുട്ട് കറന്റ് ഉള്ളത് 2 ട്രാൻസിസ്റ്ററുകളുടെ ടെർമിനലുകളുടെ അടിസ്ഥാനമായ ഇൻപുട്ട് ടെർമിനലുകൾ നിലവിലെ ചെറിയ DC കറന്റ് കടത്തിവിടുന്നു ട്രാൻസിസ്റ്ററുകളുടെ ഈ ചെറിയ അടിസ്ഥാന പ്രവാഹങ്ങൾ ആയ ബയസ് വൈദ്യുതധാരകളെ Ib1 Ib2 എന്ന് സൂചിപ്പിക്കുന്നു ഇൻപുട്ട് കറന്റ് വലിയ്ക്കുന്നില്ല നമ്മൾ അത് കണ്ടു പക്ഷേ പ്രായോഗിക ഓപ് ആമ്പുകളുടെ കാര്യത്തിൽ ഇൻപുട്ട് ചെറിയ മൂല്യം ഉള്ള കറന്റ് വലിയ്ക്കുന്നതായി നിങ്ങൾ കാണും കാരണം ഡിഫറൻഷ്യലിലെ 2 ട്രാൻസിസ്റ്ററിനെ പക്ഷപാതപരമായി കാണാനാവില്ല ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആദ്യ ഘട്ടമായ ഡിഫറൻഷ്യൽ ഘട്ടത്തിൽ 2 ട്രാൻസിസ്റ്ററുകൾ ഉണ്ട് എനിക്ക് ശരിയായി പക്ഷപാതം കാണിക്കാൻ കഴിയില്ല ഞാൻ കാണുന്നത് 2 ട്രാൻസിസ്റ്ററുകളുടെ അടിസ്ഥാന ടെർമിനൽ കുറച്ച് DC കറന്റ് കടത്തിവിടും എന്നതാണ് ട്രാൻസിസ്റ്റർ കടത്തിവിടുന്ന ഈ ചെറിയ DC കറന്റിനെ Ib1 Ib2 എന്ന് സൂചിപ്പിക്കുന്നു എന്റെ ബയസ് കറന്റ് ഇവയാണ് ഇവ ചെറുതാണ് പക്ഷേ എന്റെ ബയസ് കറന്റുകളായ ഐബി 1 ഐബി 2 എന്നിവ നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ലഭിച്ചു ഞാൻ ഒന്നുകൂടി പറയട്ടെ ഇത് വളരെ പ്രധാനമാണ് ഇൻപുട്ട് ബയസ് കറന്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്നിവ വളരെ പ്രധാനമാണ് അതിനാൽ അനുയോജ്യമായ ഒപ് ആമ്പിനായി നമുക്ക് നോക്കാം ഇൻപുട്ട് ടെർമിനലുകളിലേക്ക് കറന്റ് ഒഴുകുന്നില്ല കറന്റ് ഫ്ലോ ഇൻപുട്ട് ടെർമിനലുകളില്ല എന്നാൽ യഥാർത്ഥ ഒപ് ആമ്പിൽ പ്രായോഗിക ഓപ് ആമ്പിൽ കറന്റ് ചെറുതായിരിക്കും അത് 10 6 മുതൽ 10 14 വരെ ആമ്പിയർ ആയിരിക്കും ഇപ്പോൾ ഈ വൈദ്യുത പ്രവാഹം എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നു അതിനർത്ഥം നിങ്ങൾ 2 ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുമ്പോൾ ഈ 2 ട്രാൻസിസ്റ്ററുകളെ ശരിയായി പക്ഷപാതപരമായി കാണേണ്ടതുണ്ട് പക്ഷേ പ്രായോഗികമായി ഇത് പൂർണ്ണമായും പക്ഷപാതപരമല്ല ഇതുമൂലം ഈ ട്രാൻസിസ്റ്ററിന്റെ അടിസ്ഥാനം ചെറിയ DC വൈദ്യുത പ്രവാഹങ്ങളെ അനുവദിക്കുകയോ നടത്തുകയോ ചെയ്യും ഈ അടിസ്ഥാന കറന്റ് Ib1 Ib2 എന്നിവ നിങ്ങളുടെ ഇൻപുട്ട് ബയസ് കറന്റായിരിക്കുമെന്നും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇത് വളരെ എളുപ്പമാണ് അടുത്ത സ്ലൈഡിലേക്ക് പോകാം ഇപ്പോൾ ഇൻപുട്ട് ബയസ് കറന്റിനെ ഓരോ 2 ഇൻപുട്ട് ടെർമിനലുകളിലേക്കും ഒഴുകുന്ന വൈദ്യുതധാരയായി നിർവചിക്കാം അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റ് എന്നാൽ ഓരോ 2 ഇൻപുട്ട് ടെർമിനലുകളിലേക്കും അവ നിലയിൽ പക്ഷപാതപരമായിരിക്കുമ്പോൾ ഒഴുകുന്ന വൈദ്യുതധാരയായി നിർവഹിക്കാം 2 ഇൻപുട്ട് ടെർമിനലുകളും ഒരേ തലത്തിൽ പക്ഷപാതപരമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒപ് ആമ്പ് സന്തുലിതമാകുമ്പോൾ ഇത് സംഭവിക്കും അതിനാൽ ഇത്തരത്തിലുള്ള കണക്ഷൻ ഞാൻ ചെയ്താൽ ഞാൻ എന്റെ സർക്യൂട്ട് ഈ സ്കീമമാറ്റിക്ക് പോലെ ശരിയാക്കിയാൽ എന്റെ ഒപ് ആമ്പ് സന്തുലിതമാണ് പക്ഷേ ഇപ്പോഴും Ib1 Ib2 എന്നിവ സൃഷ്ടിക്കുന്ന ചെറിയ അളവിലുള്ള കറന്റ് നോൺ ഇൻവെർട്ടിംഗ് ഇൻവെർട്ടിംഗ് ടെർമിനലുകളിൽ ഒഴുകുന്നു ഈ 2 ബയസ് കറന്റുകൾ ഒരിക്കലും സമാനമല്ല അതിനാൽ ശരാശരി ഇൻപുട്ട് ബയസ് കറൻറ് Ib ഈ പ്രത്യേക സൂത്രവാക്യത്തിലൂടെ കണ്ടെത്താൻ കഴിയും അതിൻറെ അർത്ഥമെന്താണ് എനിക്ക് ഐബി 1 ഉണ്ടെങ്കിൽ എനിക്ക് ഐബി 2 ഉണ്ടെങ്കിൽ അത് ചെറിയ അളവിലുള്ള കറന്റ് ആണ് എന്നാൽ ബയസ് കറന്റുകൾ ഒരിക്കലും സമാനമാകില്ല അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റ് എന്താണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താനാകും | Ib1 Ib2 | 2 മോഡ് എടുത്ത് നമുക്ക് ഇൻപുട്ട് ബയസ് കറന്റ് കണ്ടെത്താൻ കഴിയും അങ്ങനെയാണ് എന്റെ ശരാശരി ഇൻപുട്ട് ബയസ് കറന്റ് കണ്ടെത്തുന്നത് ഇനി നമുക്ക് ഒരു പദം കൂടി നോക്കാം നമ്മൾ ഇതുവരെ കണ്ടത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് തുടർന്ന് ഇൻപുട്ട് ബയസ് കറന്റ് ഇപ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ശരിയായി കാണാം അതിനാൽ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്താണ് ഐബി 1 ഐബി 2 എന്നിവയുടെ വ്യത്യാസത്തിന് എൻറെ മൂല്യമാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്ന് വിളിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഐബി അല്ലെങ്കിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഞാൻ Iios എന്ന് സൂചിപ്പിക്കുന്നു പക്ഷേ | Ib1 Ib2 | വൈദ്യുതധാരയുടെ വ്യാപ്തി 20 മുതൽ 16 ആമ്പിയർ വരെ വളരെ ചെറുതാണ് ഒപ് ആമ്പിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 എന്ന അവസ്ഥയിലാണ് ഇത് അളക്കുന്നത് അതായത് ഇൻപുട്ട് വോൾട്ടേജ് 0 ആണെന്ന അവസ്ഥ പരിഗണിക്കുമ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് നമുക്ക് അളക്കാൻ കഴിയും അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റ് ൻറെ സമവാക്യം ഇതാണ് Ib|Ib1Ib2|2 ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് കണ്ടെത്തണമെങ്കിൽ സമവാക്യം |Ib1 Ib2| 2 ഇൻപുട്ടുകൾക്ക് തുല്യ DC വൈദ്യുതധാരകൾ പ്രയോഗിച്ചാൽ ഔട്ട്പുട്ട് 0 ആകണം എന്നാൽ ഔട്ട്പുട്ടിൽ കുറച്ച് വോൾട്ടേജ് നിലവിലുണ്ട് 2 ഇൻപുട്ട് കറന്റുകൾ ചെറിയ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഈ വ്യത്യാസം ഒന്നുമല്ല നിങ്ങളുടെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ആണ് 2 ഇൻപുട്ടുകൾക്ക് തുല്യമായ DC വൈദ്യുത പ്രവാഹങ്ങൾ പ്രയോഗിച്ചാൽ എന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും പക്ഷേ പ്രായോഗികമായി ഔട്ട്പുട്ടിൽ കുറച്ച് വോൾട്ടേജ് ഉണ്ട് നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ടിൽ എല്ലായ്പ്പോഴും കുറച്ച് വോൾട്ടേജ് ഉണ്ടാകും അതിനാൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 തുല്യമാക്കുന്നതിന് 2 ഇൻപുട്ട് വൈദ്യുതധാരകൾ ചെറുതായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ കറന്റ് ചെറിയ അളവിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വ്യത്യാസം മറ്റൊന്നുമല്ല എൻറെ ഇൻപുട്ട് ഓഫ്സെറ്റ് ആണ് ഇൻപുട്ട് ബയസും ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റും നിലവിലെ താപനിലയെ കറന്റിനെയും ആശ്രയിച്ചിരിക്കുന്നു ഇത് താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ഇൻപുട്ട് ബയസ് നിലവിലെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റും താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഒരു ഉദാഹരണം കാണാം അപ്പോൾ എന്താണ് ഉദാഹരണം അതിനാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ എമിറ്റർ കപ്പിൾ ട്രാൻസിസ്റ്ററുകളുടെ അടിസ്ഥാന പ്രവാഹങ്ങൾ 18 മൈക്രോഅമ്പിയറും 22 മൈക്രോഅമ്പിയറും ആണെങ്കിൽ അതിനർത്ഥം ഇത് Ib1 18 മൈക്രോഅമ്പിയറിന് തുല്യമാണ് നൽകിയിരിക്കുന്നത് Ib2 22 മൈക്രോഅമ്പിയർ തുല്യമാണെന്നും നമ്മോട് ആവശ്യപ്പെടുന്നത് ഇൻപുട്ട് ബയസ് കറന്റ് നിർണ്ണയിക്കുക എന്നതാണ് രണ്ടാമത്തെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറൻറ് ഇത് കണ്ടെത്താൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഈ 2 ഇൻപുട്ട് ബയസ് കറന്റുകൾ എങ്ങനെ കണ്ടെത്താം ഇപ്പോൾ ഇൻപുട്ട് ബയസ് കറൻറ് കണ്ടുപിടിക്കാൻ ഫോർമുല എന്താണ് ഫോർമുല വളരെ ലളിതമാണ് Ib | Ib1 Ib2 | 2 ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്താണെന്നും ഇൻപുട്ട് ഓഫിന്റെ മൂല്യങ്ങൾ നിങ്ങൾക്കറിയാമെന്നും ഇൻപുട്ട് ബയസ് കറന്റ് എന്താണെന്നും നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിന്റെ അടിയിലേക്ക് ഒഴുകുന്ന വൈദ്യുതധാരയുടെ മൂല്യങ്ങൾ നിങ്ങൾക്കറിയാം ട്രാൻസിസ്റ്ററുകളുടെ അടിസ്ഥാനം നമ്മൾ ചർച്ച ചെയ്തതിന്റെ ഒരു ഉദാഹരണമാണിത് നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം ഇൻപുട്ട് ബയസ് വൈദ്യുത പ്രവാഹങ്ങൾ Ib1 Ib2 എന്നിവ ആംപ്ലിഫയർ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് ശരിയായ ഉദാഹരണമാണ് ബയസ് കറന്റയും ഒപ് ആമ്പിന്റെയും സ്വാധീനം മനസിലാക്കാൻ ഒരു വിപരീത കോൺഫിഗറേഷൻ നമുക്ക് പരിഗണിക്കാം അതിനാൽ ഇത് വിപരീത ആംപ്ലിഫയർ ആണ് തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ ഈ വിപരീത ആംപ്ലിഫയർ നമ്മൾ ചർച്ച ചെയ്യും ഇതൊരു വിപരീത ആംപ്ലിഫയറാണെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നു ഇപ്പോൾ എനിക്ക് കിർചോഫിന്റെ വോൾട്ടേജ് നിയമം ബാധകമാണെങ്കിൽ എനിക്ക് റെസിസ്റ്റർ R1 R2 ഉണ്ട് വലത് വിപരീത ആംപ്ലിഫയറിനുള്ള നേട്ടത്തിനുള്ള സൂത്രവാക്യം മൈനസ് R2 R1 ആണ് R1 ൽ നിന്ന് ഒഴുകുന്ന വൈദ്യുതധാര i1 R2 ൽ നിന്ന് i2 ആണ് ഇത് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ ഇൻവെർട്ടിംഗ് നോൺവെർട്ടിംഗ് വൈദ്യുതധാര Ib1 Ib2 എന്നിവയാണ് ഇപ്പോൾ ഞാൻ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം പ്രയോഗിക്കുകയാണെങ്കിൽ എനിക്ക് i1 ന് തുല്യമായത് എന്തായിരിക്കും അതിനാൽ ഞാൻ ഇതും ഈ പ്രത്യേക രീതിയിൽ പോകണം i1 എന്നത് i2 i2 Ib1 ന് തുല്യമാണ് വിർച്വൽ ഗ്രൌണ്ട് പ്രയോഗിക്കുന്നത് ശരിയാണ് വിർച്വൽ ഗ്രൌണ്ട് എന്ന മറ്റൊരു ആശയം ഉണ്ടെങ്കിൽ നമ്മൾ കാണും നമുക്ക് വെർച്വൽ ഗ്രൌണ്ട് ഉണ്ടാകും എന്തായാലും എന്റെ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൌണ്ട് ചെയ്താൽ എന്റെ ഇൻവെർട്ടിംഗ് ടെർമിനലും അത് ഫലത്തിൽ നിലമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ ഈ ആശയത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കാണും V V0 അതിനാൽ കിർചോഫിന്റെ വോൾട്ടേജ് നിയമവും ഓംസ് നിയമവും i1 ഒന്നിനും തുല്യമല്ലെന്ന് നമുക്കറിയാം എന്നാൽ i1R1 ഇത് ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ ഇവിടെ V മൈനസ് കാരണം വിർച്വൽ എന്ന ആശയം കാരണം ഈ ടെർമിനൽ നിലമായി കണക്കാക്കും

എനിക്ക് Ib10 ഉണ്ടെങ്കിൽ ഈ സൂത്രവാക്യം എനിക്ക് ലഭിക്കുന്നു പക്ഷേ അങ്ങനെയല്ലെങ്കിൽ ഒരു മാറ്റമുണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്റെ Ib1 നെ ആശ്രയിക്കേണ്ടതുണ്ട് കാരണം Ib1 അത് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറ്റും പകരം R2R1Vin R2Ib1 അതിനാൽ ഈ Ib1 R2 ഇവിടെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിനെ പ്രതിനിധീകരിക്കുന്നു ഇൻപുട്ട് കണക്റ്റുചെയ്തിട്ടില്ലെങ്കിൽ VI0 ഐഡിയലി V0 ആണെന്ന് വിശകലനം ചെയ്യാൻ കഴിയും പക്ഷേ ഇൻപുട്ട് ബയസ് കറൻറ് കാരണം തെളിയിക്കപ്പെട്ട വോൾട്ടേജിൽ ഫലങ്ങളുണ്ടെങ്കിൽ പോലും ഇൻപുട്ട് പ്രയോഗിച്ചിട്ടില്ല ശരിയാണ് അതിനാൽ പോയിന്റ് ഇതാണ് ഈ ഔട്ട്പുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എനിക്ക് എങ്ങനെ ചെറുതാക്കാനാകും അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഫീഡ്ബാക്ക് പ്രതിരോധം R2 കുറയ്ക്കുക എന്നതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫീഡ്ബാക്ക് പ്രതിരോധം കുറയ്ക്കുന്നതിലൂടെ ആവശ്യമായ നേട്ടം കൈവരിക്കാനാവില്ല പക്ഷേ പ്രതിരോധം കുറയുന്നു ഫീഡ്ബാക്ക് പ്രതിരോധം ആവശ്യമായ നേട്ടം നേടാൻ കഴിയില്ല അതിനാൽ Ib1 0 ന് അടുത്തായിരിക്കുമ്പോൾ മാത്രമേ Ib1 ന്റെ പ്രഭാവം പരിഗണിക്കാവൂ എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മൂല്യം ശരിയായിരിക്കാം അതിനാൽ ഈ പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ നിർത്തും ഇത് ഒരു ഇൻപുട്ട് ബയസ് കറന്റാണെങ്കിൽ അടുത്ത മൊഡ്യൂളിൽ കൂടുതൽ ആപ്ലിക്കേഷനുകളോ ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ കൂടുതൽ സവിശേഷതകളോ നമ്മൾ കാണും അതുവരെ നിങ്ങൾ എല്ലാവരും വീണ്ടും വായിക്കാൻ ശ്രദ്ധിക്കുന്നു ഈ പ്രത്യേക മൊഡ്യൂളിൽ നമ്മൾ കണ്ടതെല്ലാം നമുക്ക് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ മറ്റ് സവിശേഷതകൾ എങ്ങനെ മനസ്സിലാക്കാം അതായത് 0 ഇൻപുട്ട് കറൻറ് വിർച്വൽ ഗ്രൌണ്ട് എന്ന സവിശേഷത എങ്ങനെ മനസ്സിലാക്കാം ഞങ്ങൾ ഇവിടെത്തന്നെ വിർച്വൽ ഗ്രൌണ്ട് ആശയം ചർച്ചചെയ്തു അതിനാൽ അടുത്ത മൊഡ്യൂളിൽ ഈ ആശയം നമ്മൾ കാണും അതിനാൽ ഈ വിപരീത ആംപ്ലിഫയർ എന്താണെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസിലാക്കാൻ കഴിയും എങ്ങനെയാണ് വിർച്വൽ ഗ്രൌണ്ട് ചിത്രത്തിലേക്ക് വരുന്നത് എന്ന് ഞാൻ ഒരു ഉദാഹരണം എടുത്തു ഇത് നടുക്ക് പെട്ടെന്ന് അല്പം തന്ത്രപരമാണ് കാരണം കൃത്യമായി ഓപ്പറേഷൻ ആംപ്ലിഫയർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാകില്ല വിപരീത ആംപ്ലിഫയർ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വെർച്വൽ ഗ്രൌണ്ടുകൾ എങ്ങനെയാണ് ചിത്രത്തിലേക്ക് വരുന്നത് അതിനാൽ ഈ ആശയങ്ങൾ നമ്മൾ കാണും ഇൻപുട്ട് ബയസ് കറന്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്നിവ വളരെ പ്രധാനമാണ് കാരണം ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടതും നമ്മൾ നിർമ്മിക്കേണ്ടതുമുണ്ട് വിപരീതവും അല്ലാത്തതുമായ ടെർമിനലുകൾ നിലത്തുവീഴുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കണം തുടർന്ന് നമ്മുടെ ഒപ് ആമ്പ് മാത്രമേ സന്തുലിതമാകൂ തുടർന്ന് കൂടുതൽ ആപ്ലിക്കേഷനായി ഇത് ഉപയോഗിക്കണം അതിനാൽ നിങ്ങൾ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻപുട്ട് ടെർമിനലുകൾ നിലത്തുവീഴുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണെന്ന് ഉറപ്പാക്കുക അടുത്ത മൊഡ്യൂളിൽ ഒപ് ആമ്പിന്റെ കൂടുതൽ പാരാമീറ്ററുകൾ നമ്മൾ കാണും അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു അടുത്ത മൊഡ്യൂളിൽ ഞാൻ നിങ്ങളെ കാണും